ഇന്നത്തെ സെഷനിൽ നമ്മൾ അക്കൌണ്ടിങ്ങിന്റെ ചരിത്രത്തെക്കുറിച്ചു ആണ് ചർച്ച ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ സെഷനിൽ അക്കൌണ്ടിങ്ന്റെ വിവിധ ആശയങ്ങളും തത്വങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവ അക്കൌണ്ടിംഗ് സ്റ്റാൻഡേർഡായി സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുണ്ട് ഇന്ന് നമുക്ക് അക്കൌണ്ടിംഗ് എങ്ങനെ വികസിച്ചുവെന്ന് നോക്കാം അക്കൌണ്ടിംഗ് അല്ലെങ്കിൽ ബുക്ക് കീപ്പിംഗുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യൻ ഉത്സവം നിങ്ങൾക്കറിയാമോ അക്കൌണ്ടിങ്ങുമായി ബന്ധമുള്ള നിങ്ങൾ ആഘോഷിക്കുന്ന ഏതെങ്കിലും ഉത്സവം ഓർമ്മിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് ഒരു സൂചന തരാം അക്കൌണ്ടിംഗ് പീരീഡുമായി ഏറെ ബന്ധം ഉണ്ട് ഈ ഉത്സവത്തിന് അനന്തമായ കാലയളവുകൾ ഒരു നിർദ്ദിഷ്ട വർഷ കാലയളവുകളായി വിഭജിക്കുകയും അക്കൌണ്ടിംഗ് ബുക്ക്സ് ക്ലോസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പീരീഡ് ആണ് നാം അക്കൌണ്ടിംഗ് പീരീഡ് കോൺസെപ്റ് എന്ന് വിളിക്കുന്നു അപ്പോൾ ആ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഉത്സവം നിങ്ങൾക്കറിയാമോ കാലാകാലങ്ങളായി ഗവൺമെന്റുകളും വ്യാപാരികളും റെക്കോർഡുകൾ സൂക്ഷിക്കുന്നതിനായി അക്കൌണ്ടിംഗ് ഉപയോഗിക്കുന്നു പണ്ടുമുതലേ ചോപഡികൾ തയ്യാറാക്കുന്ന വളരെ നീണ്ട പാരമ്പര്യമാണ് ഇന്ത്യയിലുള്ളത് ചോപാഡികൾ അക്കൌണ്ടുകളുടെ പുസ്തകങ്ങളെ പരാമർശിക്കുന്നു ഒപ്പം എല്ലാ വർഷവും പഴയ ചോപാഡികൾ അടയ്ക്കുകയും പുതിയ സെറ്റ് ചോപാഡികൾ തുറക്കുകയും ചെയ്തിരുന്നു നിങ്ങളിൽ പലരും ഇത് ശരിയായി കണ്ടു പിടിച്ചു എന്ന് ഞാൻ കരുതുന്നു ലക്ഷ്മി പൂജ അതാണ് ദീപാവലി ആഘോഷിക്കുന്നതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ ലക്ഷ്മി പൂജ എന്നത് പഴയ പുസ്തകങ്ങൾ അടച്ചു പുതിയ പുസ്തകങ്ങളോ ചോപദികളോ ആരാധിക്കപ്പെടുന്ന ഒരു ശുഭദിനമാണ് തുടർന്ന് അവ അടുത്ത ദിവസം തുറക്കും അക്കൌണ്ടിംഗ് കാലയളവ് എന്ന ആശയം ഇന്ത്യൻ പാരമ്പര്യത്തിൽ എങ്ങനെ ഉറച്ചുനിൽക്കുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ചോപദികളെ ആരാധിക്കുന്ന രീതിയിലുള്ള ഒരു പരമ്പരാഗത ഫോട്ടോയാണിത് തുടർന്ന് ദീപാവലി സമയത്ത് പുതിയ ചോപാഡികൾ ആരംഭിക്കും പഴയ കാലഘട്ടത്തിലെ അക്കൌണ്ടിംഗ് എങ്ങനെ ആയിരുന്നു എന്നതിന്റെ ചില രേഖകളുടെ ഫോട്ടോയാണിത് നിരവധി ഇന്ത്യൻ വേദഗ്രന്ഥങ്ങളിൽ പല സാമ്പത്തിക ഉപകരണങ്ങളെക്കുറിച്ചും ഹണ്ടികളെക്കുറിച്ചും പരാമർശമുണ്ട് അവ പണം കൈമാറ്റം ചെയ്യുന്നതിനായി വ്യാപകമായി ഉപയോഗിച്ചു ഇവിടെ ചില ഹുണ്ടികളുടെ ചില ഫോട്ടോഗ്രാഫുകൾ ഉണ്ട് നിങ്ങളിൽ പലരും കൌടില്യ അർത്ഥശാസ്ത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകും കൌടില്യ അർത്ഥശാസ്ത്രം അക്കൌണ്ടിങ്ങിനെക്കുറിച്ചുള്ള നിയമങ്ങൾ നന്നായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചാണക്യൻ വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ കൌടില്യ അദ്ദേഹം ഒരു രാഷ്ട്രതന്ത്രജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ആത്മീയ ഗുരുവും ആയിരുന്നു അദ്ദേഹത്തിന്റെ കാലഘട്ടം ബിസി നാലാം നൂറ്റാണ്ടിലാണ് ബുക്ക് കീപ്പിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ തയ്യാറാക്കൽ ഓഡിറ്റിംഗ് ഫ്രോഡ് റിസ്ക് മാനേജുമെന്റ് തുടങ്ങിയവ ഉൾപ്പെടുന്ന അക്കൌണ്ടിംഗ് സിദ്ധാന്തമാണ് കൌടില്യ നിർദ്ദേശിച്ചത് അക്കൌണ്ടിംഗ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്ന് അദ്ദേഹം കരുതി ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങൾ കൊളോണിയൽ ഭരണത്തിന്റെ ആവിർഭാവത്തിന് പതിനഞ്ചാം നൂറ്റാണ്ട് വരെ തന്റെ കൃതികൾ ഉപയോഗിച്ചു സാമ്പത്തിക ഡാറ്റ റെക്കോർഡുചെയ്യുന്നതിനും തരംതിരിക്കുന്നതിനുമായി അക്കൌണ്ടിംഗ് നിയമങ്ങൾ നൽകിയിട്ടുണ്ട് ഓഡിറ്റ് സ്വതന്ത്രമായിരിക്കേണ്ടതും ആനുകാലികമായി നടത്തേണ്ടതുമാണ് മാത്രമല്ല വളരെ നിർണായകമായ ഒരു പങ്കു വഹിക്കുന്നു രണ്ട് പ്രധാന ഓഫീസ് ഉണ്ടായിരുന്നു ട്രഷററും കംട്രോളർ ജനറലും ഓഡിറ്റ് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ഉറപ്പാക്കാൻ അവ മനപൂർവ്വം വേർതിരിക്കപ്പെട്ടിരുന്നു അതിനാൽ അക്കൌണ്ടിംഗ് ഉത്തരവാദിത്തം വർദ്ധിപ്പിക്കുകയും സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരികയും വൈരുദ്ധ്യങ്ങൾ ഗണ്യമായി കുറയ്ക്കുകയും ചെയ്തു നിയമങ്ങളുടെ വ്യക്തത സ്ഥിരത സമ്പൂർണ്ണത എന്നിവ അത്തരം നടപ്പാക്കലിന് പ്രധാനമാണ് ഈ നടപടികൾ ആവശ്യമായിരുന്നു പക്ഷേ വഞ്ചനാപരമായ അക്കൌണ്ടിംഗ് ഇല്ലാതാക്കാൻ പര്യാപ്തമല്ല ഇപ്പോൾ കൌടില്യ അർത്ഥശാസ്ത്ര അക്കൌണ്ടുകളുടെ നിയമം അനുസരിച്ച് സാമ്പത്തിക വർഷം നിശ്ചയിച്ചിട്ടുണ്ട് കൂടാതെ അക്കൌണ്ടുകൾ അടയ്ക്കുന്നതിനും ഓഡിറ്റുചെയ്യുന്നതിനുമുള്ള മുഴുവൻ പ്രക്രിയയും പരാമർശിക്കപ്പെട്ടു വിവിധ വകുപ്പുകളുടെ അക്കൌണ്ടുകളുടെ ഏകീകരണ രീതിയും ഇതിൽ ഉൾകൊള്ളുന്നു കാരണം സർക്കാരിനു കീഴിൽ നിരവധി വകുപ്പുകൾ ഉണ്ട് അപ്പോൾ രാജ്യത്തിനോ സംസ്ഥാനത്തിനോ വേണ്ടി ഒരു പൂർണ്ണ ചിത്രം നേടുന്നതിന് അവ ശരിയായി ഏകീകരിക്കേണ്ടത് ആവശ്യമാണ് അക്കൌണ്ടന്റുമാർ പൂർത്തിയാക്കിയ അക്കൌണ്ടുകൾ ഹെഡ് ഓഫീസിലേക്ക് നൽകേണ്ടതുണ്ട് ഇപ്പോൾ കൌടില്യ പറയുന്നതനുസരിച് ആ രസീതുകൾ ചിലപ്പോൾ കഴിഞ്ഞ കാലയളവിൽ ഉള്ളതാവാം നിലവിലുള്ള കാലയളവിൽ ഉള്ളതാവാം അല്ലെങ്കിൽ യാദൃച്ഛികമാകാം അതിനാൽ രസീതുകൾ ക്ലാസ്സിഫൈ ചെയ്തു ഒപ്പം പണം രസീതുകൾ കടക്കാർ സമാഹരിച്ച വരുമാനം മറ്റ് സ്രോതസ്സുകളിൽ നിന്നുള്ള വരുമാനം വീണ്ടെടുത്ത കടങ്ങൾ അപ്രതീക്ഷിത നേട്ടം എന്നിങ്ങനെ തരം തിരിച്ചു റിസ്ക് എന്ന ആശയം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് വായ്പകൾക്ക് വ്യത്യസ്ത പലിശ നിരക്ക് ഈടാക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു വരുമാനം അനിശ്ചിതത്വത്തിലായതിനാൽ വിദേശ വ്യാപാര വായ്പ ഏറ്റവും ഉയർന്ന പലിശനിരക്കിനെ ആകർഷിച്ചു അതിനാൽ അപകടസാധ്യത കണക്കിലെടുത്തുഅത്തരം വായ്പകളിൽ റിസ്ക് പ്രീമിയം ഈടാക്കാം ഇപ്പോൾ രസീതുകളുടെ വർഗ്ഗീകരണത്തിന് സമാനമായി ചെലവുകളുടെ കാര്യത്തിലും വർഗ്ഗീകരണo നടത്തി അതിനാൽ മൂലധനച്ചെലവും വരുമാനച്ചെലവും തമ്മിൽ വ്യതാസപ്പെടുത്തി ചെലവുകൾ രണ്ടു തരം ആണ് ദൈനംദിന ചെലവും ലാഭകരമായ ചെലവും ചെലവും വരുമാനവും തമ്മിലുള്ള വ്യത്യാസം നെറ്റ് ബാലൻസ് എന്ന് വിശേഷിപ്പിച്ചു ഒരു കാലയളവിൽ ലാഭമുണ്ടാക്കുന്ന നിർമാണത്തിൽ ദീർഘകാല നിക്ഷേപം നടത്താൻ അദ്ദേഹം നിർബന്ധിച്ചു പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ജോലികളുടെ ട്രാക്ക് സൂക്ഷിക്കുന്നതിനും ഇത് ഉപകരിക്കും ഇപ്പോൾ ഒരു അക്കൌണ്ടന്റിന്റെ പങ്കും ഉത്തരവാദിത്തവും നന്നായി നിർവചിക്കപ്പെട്ടിട്ടുണ്ട് കിംഗ്ഡംസ് ട്രഷറി ഫംഗ്ഷനിൽ സീനിയർ മുതൽ ജൂനിയർ അക്കൌണ്ടന്റുമാരുടെ ഒരു ശ്രേണിപരമായ ഓർഗനൈസേഷൻ ഘടനയിൽ അക്കൌണ്ടന്റുമാർ അക്കൌണ്ടുകളുടെ പുസ്തകങ്ങൾ നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസൃതമായി വാർഷിക അടിസ്ഥാനത്തിൽ പരിപാലിക്കുന്നു അവ വർഷാവസാനം ഓഡിറ്റിനായി സജ്ജമാക്കി ഉയർന്ന വരുമാനം അവരെ ധാർമ്മികമായി നിലനിർത്തുന്നതിനാൽ അക്കൌണ്ടന്റുമാർക്കും ഓഡിറ്റർക്കും നല്ല ശമ്പളം നൽകണമെന്ന് കൌടില്യ നിർദ്ദേശിച്ചു കാരണം അവർക്ക് നല്ല ശമ്പളം നൽകിയില്ലെങ്കിൽ അവർ തട്ടിപ്പ് നടത്താൻ കൂടുതൽ സാധ്യതയുണ്ട് അക്കൌണ്ടന്റുമാരാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളിൽ ഭൂരിഭാഗവും അക്കൌണ്ടന്റുമാരുടെയും ഓഡിറ്റർമാരുടെയും ശമ്പളം വളരെ ഉയർന്നതാണെന്നു അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ടെന്നും ഞാൻ കരുതുന്നു ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടതും ആകർഷകവുമായ ഒരു കാര്യം രണ്ട് ഓഫീസ് ട്രഷറിയും ഓഡിറ്റും വേർതിരിക്കപ്പെട്ടതായിരുന്നു ഫിനാൻസ് ഫംഗ്ഷനും ഓഡിറ്റ് ഫംഗ്ഷനും തമ്മിലുള്ള താൽപ്പര്യ വൈരുദ്ധ്യം ഒഴിവാക്കാൻ ഇത് ആവശ്യമാണ് ധനകാര്യ മേധാവിയും ഓഡിറ്റ് മേധാവിയും സ്വതന്ത്രമായും വെവ്വേറെയും രാജാവിന് റിപ്പോർട്ട് ചെയ്യണമെന്ന് കൌടില്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവ രണ്ടും തമ്മിൽ കൂട്ടിയിടിക്കാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞതായി അദ്ദേഹം കരുതുന്നു ഇന്ത്യയിൽ ഇപ്പോൾ സർക്കാരിനു കംട്രോളർ ജനറൽ ഓഫ് ഓഡിറ്റ് ഉണ്ട് ധനകാര്യ മന്ത്രാലയം ഉണ്ട് ഇവ രണ്ട് വ്യത്യസ്ത ഫങ്ഷനുകൾ ആണ് എന്നിരുന്നാലും കോർപ്പറേറ്റ് ലോകത്ത് പലപ്പോഴും ഈ പ്രവർത്തനങ്ങൾ വ്യത്യസ്തമായിരിക്കില്ല കാരണം ഓഡിറ്റ് എക്സിക്യൂട്ടീവുകൾ നേരിട്ട് സിഇഒയ്ക്ക് പകരം സിഎഫ്ഒയ്ക്ക് റിപ്പോർട്ട് ചെയ്യാം എന്നാൽ തത്വത്തിൽ സമ്പൂർണ്ണമായ വേർതിരിവ് വേണ്ടതാണ് ഓഡിറ്റർമാർക്ക് ഒരു സ്വതന്ത്ര സ്ഥാനവും ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് അതുവഴി അവർക്ക് നേരിട്ട് സിഇഒയ്ക്കോ ബോർഡിനോ റിപ്പോർട്ടുചെയ്യാനാകും ധാർമ്മിക സംസ്കാരം വളർത്തിയെടുക്കാൻ കൌടില്യ ഊന്നിപ്പറഞ്ഞു കാരണം ഒരു ധാർമ്മികത ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് നിയമങ്ങൾ കൊണ്ട് വന്നാലും ആളുകൾ വിവിധ തരത്തിലുള്ള തട്ടിപ്പുകൾ ചെയ്യാനുള്ള വഴികളും മാർഗങ്ങളും കണ്ടെത്തും സ്വഭാവം വ്യക്തികളുടെ വ്യക്തിപരമായ മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും ധാർമ്മിക മൂല്യ പഠനം കുട്ടിക്കാലം മുതലേ ആരംഭിക്കേണ്ടതുണ്ടെന്നും കൌടില്യ വിശ്വസിച്ചു മുതിർന്നവരുടെ നൈതിക പെരുമാറ്റം പ്രൊഫഷണൽ നൈപുണ്യത്തെ പോലെ പ്രധാനമായിരുന്നു കാരണം തട്ടിപ്പുകൾ നടക്കില്ലെന്നും അനുചിതമായ പെരുമാറ്റം നടക്കുന്നില്ലെന്നും ഉറപ്പാക്കാൻ നൈപുണ്യം മാത്രം പര്യാപ്തമല്ല രാജ്യത്ത് നൈതിക അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹം നിർദ്ദേശിച്ചു എന്നിരുന്നാലും അദ്ദേഹം പ്രായോഗികനായിരുന്നു അഴിമതിയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞു അധികാര ദുർവിനിയോഗം വഞ്ചനാപരമായ റിപ്പോർട്ടിംഗ് എന്നിവ കാരണം സാമ്പത്തിക പ്രസ്താവനകൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനെക്കുറിച്ച് അക്കൌണ്ടിങ്ങിൽ അദ്ദേഹം സംസാരിച്ചു ചട്ടങ്ങളും ചട്ടങ്ങളും പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് പ്രതിഫലത്തിന്റെയും ശിക്ഷയുടെയും ഒരു സംവിധാനം അദ്ദേഹം ആവിഷ്കരിച്ചു ഇപ്പോൾ അക്കൌണ്ടുകളുടെ സ്ഥിരീകരണവും ഓഡിറ്റിംഗും ഇപ്പോൾ നിരന്തരമായ നിരീക്ഷണം ആനുകാലിക ഓഡിറ്റിംഗ് വൌച്ചിംഗിന്റെ സ്ഥിരീകരണം എന്നീ ആശയങ്ങൾ പുരാതന കാലങ്ങളിൽ പോലും നിലവിലുണ്ടായിരുന്നു ദിവസേന പരിശോധനകൾ നടത്തുകയും ചെയ്തു അഞ്ച് രാത്രികൾ പക്ഷങ്ങൾ മാസങ്ങൾ നാല് മാസം വർഷം എന്നിവ ആനുകാലിക പരിശോധന നടത്തിയ കാലഘട്ടങ്ങളായിരുന്നു ഇപ്പോൾ വരുമാനം സ്ഥിരീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടുകളും പേയ്മെന്റ് വൌച്ചറുകളും അക്കാലത്ത് ഉപയോഗിച്ചിരുന്നു രസകരമെന്നു പറയട്ടെ ഓരോ വകുപ്പിനും ചാരന്മാരുണ്ടായിരുന്നു മുതിർന്നവർക്ക് വിവരങ്ങൾ നൽകാനും തെറ്റുകൾ റിപ്പോർട്ട് ചെയ്യാനും ചാരന്മാരുണ്ടായിരുന്നു അതിനാൽ താഴെത്തട്ടിൽ സംഭവിക്കുന്നത് ചാരന്മാരിലൂടെ മുതിർന്നവർക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു വഞ്ചനാപരമായ ഇടപാടുകൾ കണ്ടെത്തുന്നതിനും സാമ്പത്തിക പ്രസ്താവനകൾ തെറ്റായി വ്യാഖ്യാനിച്ചതിന് അക്കൌണ്ടന്റുമാരെ ശിക്ഷിക്കുന്നതിനും ഒരു മുഴുവൻ പ്രക്രിയയും ഉണ്ടായിരുന്നു ഇത് പുരാതന ഇന്ത്യയെക്കുറിച്ചാണ് അവിടെ അക്കൌണ്ടിംഗ് നന്നായി വികസിപ്പിച്ചെടുത്തിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ അക്കൌണ്ടിംഗ് വളരെ താമസിച്ചാണ് തുടക്കം കുറിച്ചത് 1445 ൽ ലൂക്കാ പചൌലി പാസിയോളി അക്കൌണ്ടിങ്ങിന്റെ ആദ്യത്തെ ആധുനിക പാഠപുസ്തകം പ്രസിദ്ധീകരിച്ചതിനാൽ അദ്ദേഹം ആധുനിക അക്കൌണ്ടിങ്ങിന്റെ പിതാവായി കണക്കാക്കപ്പെടുന്നു അദ്ദേഹം ഇറ്റലിയിൽ നിന്നാണ് ഇപ്പോൾ സർക്കാരുകളും വ്യാപാരികളും വളരെക്കാലമായി റെക്കോർഡുചെയ്യുന്ന ഇടപാടുകളുടെ സംവിധാനം ഉപയോഗിക്കുന്നു എന്നിരുന്നാലും ഈ സംവിധാനം പ്രത്യേകിച്ചും യൂറോപ്പിലെ വ്യാപാരികൾക്ക് ഒരു മാനദണ്ഡമായിത്തീർന്നത് പാസിയോലി അത് തന്റെ പുസ്തകത്തിൽ ക്രമീകരിച്ച് ഓർഗനൈസു ചെയ്തതിനുശേഷം മാത്രമാണ് അതിനാൽ ഇപ്പോൾ ഉയർന്നുവരുന്ന ചോദ്യം പുരാതന ഇന്ത്യയിലാണ് അർത്ഥശാസ്ത്രത്തിൽ കാണാൻ കഴിയുന്നത്ര വിശദമായ അക്കൌണ്ടിംഗ് സമ്പ്രദായം ഉള്ളതെങ്കിൽ അത്ര വികസിത വാണിജ്യ നില ഉണ്ടായിരിക്കേണ്ടേ എന്നത് അതിനാൽ ബിസിനസ്സ് വ്യാപാരം വാണിജ്യം വ്യവസായം എന്നിവയെല്ലാം പുരാതന ഇന്ത്യയിൽ വളരെയധികം വികസിച്ചവയാണെന്ന് നാം കാണുന്നു വളരെ ഉയർന്ന ബി ഒ പി മിച്ചം ഉണ്ടായിരുന്നു അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ് മിച്ചം അത് സ്വർണ്ണത്തിന്റെ ചലനത്തിലൂടെ ക്രോസ് ചെക്ക് ചെയ്യാൻ കഴിയും ഇന്ത്യയിലേക്ക് ധാരാളം സ്വർണം മാറ്റാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ ലഭ്യമാണ് കടൽ വഴികളിലൂടെ വ്യാപാരം നടന്നിരുന്നതിനു നാവിഗേഷൻറെ തെളിവുകളും ഉണ്ട് പുരാതന കാലത്തെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ബിസിനസ്സ് ആളുകൾ വളരെ പുരാതന കാലം മുതൽ തന്നെ കോർപ്പറേറ്റ് ഫോം ഉപയോഗിക്കുന്നുവെന്നും കോർപ്പറേറ്റ് ഫോം ശ്രേണി എന്നറിയപ്പെടുന്നുവെന്നും പരിശോധനയിൽ വ്യക്തമാണ് രേഖകൾ നോക്കിയാൽ ബിസി 800 മുതൽ എ ഡി 1000 ൽ ഇസ്ലാമിക അധിനിവേശം വരുന്നതുവരെ തുടർച്ചയായി ഉപയോഗിച്ചിരുന്നു റോമൻ പ്രോട്ടോ കോർപ്പറേഷനുകൾക്ക് വളരെ മുമ്പുതന്നെ കോർപ്പറേറ്റ് ഫോം ഉപയോഗിക്കുന്നതിനുള്ള തെളിവുകൾ ഇത് നൽകുന്നു വാസ്തവത്തിൽ പുരാതന ഇന്ത്യയിൽ ശ്രേണിയുടെ ഉപയോഗം വ്യാപകമായി പ്രചരിച്ചിരുന്നു എല്ലാത്തരം ബിസിനസ്സ് രാഷ്ട്രീയ മുനിസിപ്പൽ പ്രവർത്തനങ്ങളും ഉൾപ്പെടെ മാത്രമല്ല ഈ എന്റിറ്റികൾ എങ്ങനെയാണ് ഘടനാപരവും ഭരണപരവും നിയന്ത്രിതവുമായവയെന്ന് പരിശോധിക്കുമ്പോൾ അവ ആധുനിക കോർപ്പറേഷനുകളുമായി വളരെയധികം സാമ്യത പുലർത്തുന്നതായി കാണാം ഇന്ത്യയിലെ കോർപ്പറേറ്റ് രൂപത്തിന്റെ സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ച് പ്രൊഫസർ വിക്രമാദിത്യ ഖന്നയുടെ വിശദമായ ഒരു പുസ്തകം ഉണ്ട് ഈ സ്ലൈഡുകൾ അതിൽ നിന്ന് എടുത്തതാണ് ലോക സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ച് മറ്റ് പല രേഖകളും ഉണ്ട് പോൾ ബൈറോച്ച് ഒരു യുദ്ധാനന്തര സാമ്പത്തിക ചരിത്രകാരനായിരുന്നു വ്യവസായത്തിന്റെ ചരിത്രവും നഗരചരിത്രവും അദ്ദേഹം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇന്ത്യയുടെ പങ്ക് സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ബ്രിട്ടീഷുകാരുടെ വരവിനു മുമ്പ് ഇന്ത്യ വളരെ വ്യാവസായിക രാജ്യമായിരുന്നു കൂടുതൽ വിശദമായ റെക്കോർഡ് ആംഗസ് മാഡിസന്റെ സൃഷ്ടികളിൽ നിന്ന് ലഭ്യമാണ് ഒഇസിഡി വികസന കേന്ദ്ര പഠനങ്ങൾ ആരംഭിച്ച ലോക സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ ചുമതല ആംഗസ് മാഡിസണിനായിരുന്നു ഇപ്പോൾ കൊണ്ടുവന്ന സാമ്പത്തിക ചരിത്രം വളരെ രസകരമാണ് ആംഗസ് മാഡിസന്റെ പ്രവർത്തനത്തിൽ ലോക ജിഡിപിയുടെ പങ്ക് പരിശോധിച്ചാൽ അത് 00 മുതൽ 1998 വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതേ സ്ലൈഡിൽ ഇവിടെ പുനർനിർമ്മിച്ചു ഇന്ത്യയിൽ 00 ൽ വളരെ ഉയർന്ന പങ്ക് ഉണ്ടായിരുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് 1000 വരെ 32 9 ശതമാനം വരെ ഉയർന്നതാണ് ഇത് ആഗോള ജിഡിപിയുടെ 28 9 ശതമാനവും 1700 ൽ 24 ശതമാനത്തോളം ഉയർന്നതുമായിരുന്നു അതിനാൽ ലോകത്തിലെ പ്രധാന സമ്പദ്വ്യവസ്ഥ ഇന്ത്യയും ചൈനയുമായിരുന്നുവെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയും പടിഞ്ഞാറൻ യൂറോപ്പ് യുഎസ് തുടങ്ങിയ രാജ്യങ്ങൾ വളരെ പിന്നീട് എത്തി അതിനാൽ ഞാൻ പറയാൻ ശ്രമിക്കുന്ന കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജിഡിപിയുടെ വളരെ ഉയർന്ന പങ്ക് നമുക്ക് നല്ല ഒരു അക്കൌണ്ടിംഗ് സമ്പ്രദായമുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ടെന്നതാണ് അതിനാൽ കൌടില്യയും മറ്റ് രചയിതാക്കളും രേഖപ്പെടുത്തിയ അക്കൌണ്ടിംഗ് സിസ്റ്റത്തിന് മറ്റ് പല സഹകരണ റെക്കോർഡുകളുടെയും പിന്തുണയുണ്ട് അതിനാൽ ഇവിടെ നിർത്താം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇൻറർനെറ്റിൽ കാണാൻ കഴിയും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇത് ഒരു ഗ്രാഫിന്റെ രൂപത്തിലും കാണാൻ കഴിയും